നമ്മൾ അസൈൻമെന്റ് നമ്പർ 1 പരിഹരിക്കുന്നു ഈ ട്യൂട്ടോറിയൽ നമ്മൾ പ്രശ്നം 4 മുതൽ പ്രശ്നം 9 വരെ പരിഹരിക്കും പ്രശ്നം 4 പറയുന്നു നമുക്ക് 2 അനന്തമായി നീളമുള്ള ഓവർലാപ്പിംഗ് സിലിണ്ടറുകൾ ഉണ്ടെങ്കിൽ അതിനാൽ അനന്തമായ നീളമുള്ള 2 ഓവർലാപ്പിംഗ് സിലിണ്ടറുകൾ അവയുടെ ആരം ക്യാപിറ്റൽ R നമുക്ക് നിർമ്മിക്കാം അതിനാൽ ഇത് ആരം ക്യാപിറ്റൽ R ആണ് ഒരു സിലിണ്ടർ ചാർജ് ഡെൻസിറ്റി rho വഹിക്കുന്നു അതിനാൽ ഈ കറുപ്പ് നിറത്തിലുള്ളത് ചാർജ് ഡെൻസിറ്റി rho ചുവപ്പു നിറത്തിലുള്ളത് ചാർജ് ഡെൻസിറ്റി മൈനസ് rho വഹിക്കുന്നു 2 സിലിണ്ടറുകളുടെ അക്ഷം തമ്മിലുള്ള ദൂരം a ആണ് a 2 r ൽ കുറവാണ് അതിനാൽ ഒരു ഓവർലാപ്പ് ഉണ്ട് അതിനാൽ ഈ ദൂരം a ഓവർലാപ്പിംഗ് മേഖലയിലെ വൈദ്യുത മണ്ഡലത്തിന്റെ വ്യാപ്തി ഇതാണ് ഇതാണ് നമ്മൾ കണക്കാക്കാൻ ആഗ്രഹിക്കുന്നത് അതിനാൽ മുകളിൽ നിന്ന് നോക്കാം മുകളിൽ നിന്ന് നോക്കിയാൽ ഇവിടെ ഒരു സിലിണ്ടറാണ് ഇവിടെ മറ്റ് സിലിണ്ടറാണ് ഈ ഓവർലാപ്പിംഗ് മേഖലയിലാണ് നമ്മൾ വൈദ്യുത മണ്ഡലം കണക്കാക്കാൻ ആഗ്രഹിക്കുന്നത് അതിനാൽ ഓവർലാപ്പിംഗ് മേഖലയിലെ ഒരു ഇലക്ട്രിക് ഫീൽഡ് നെറ്റ് ഫീൽഡ് ആകാൻ പോകുന്നു ഇത് ഇലക്ട്രിക് ഫീൽഡ് E 1 ന്റെ ആകെത്തുകയാണ് ഇത് പോസിറ്റീവ് ചാർജും E 2 ഉം നെഗറ്റീവ് ചാർജ് മൂലമാണ് അതിനാൽ ഓവർലാപ്പിംഗ് മേഖലയിൽ E ഫീൽഡ് എങ്ങനെ കാണപ്പെടുന്നുവെന്ന് ഞാൻ കാണിച്ചുതരാം പോസിറ്റീവ് ചാർജ് കാരണം E 1 മൂലമുള്ള ഇലക്ട്രിക് ഫീൽഡ് ഏത് സമയത്തും വെക്റ്ററിനൊപ്പം ആയിരിക്കും ഇത് ഇതുപോലെ റേഡിയൽ ഔട്ട് ആക്കട്ടെ ചുവപ്പു നിറത്തിലുള്ള ഫീൽഡ് മൂലമുള്ള വെക്റ്ററിനൊപ്പം ആയിരിക്കും അവയുടെ വ്യാപ്തിയെക്കുറിച്ച് അവ കണക്കാക്കാൻ അനുവദിക്കുന്നു EE1E2 പോസിറ്റീവ് ചാർജ്ജ് ചെയ്ത സിലിണ്ടറിന്റെ മധ്യത്തിൽ നിന്ന് R 1 ദൂരം ആയിരിക്കട്ടെ അതിനാൽ ഇത് വെക്റ്റർ R 1 ആണ് കൂടാതെ നെഗറ്റീവ് ചാർജിൽ നിന്ന് നെഗറ്റീവ് ചാർജ്ജ് ചെയ്ത സിലിണ്ടറിന്റെ മധ്യത്തിലേക്കുള്ള ദൂരം ആ വെക്റ്റർ R 2 ആയിരിക്കട്ടെ അതിനാൽ ഫീൽഡ് E 1 E 2 എന്നിവ കാരണം ആയിരിക്കും അതിനാൽ അവയുടെ ആകെത്തുക നമുക്ക് കണക്കാക്കാം ഗൌസ്സ് ന്റെ നിയമപ്രകാരം E 1 E 2 എന്നിവ കണക്കാക്കാം അതിനാൽ ഗൌസ്സ് ന്റെ നിയമപ്രകാരം r 1 അകലെയുള്ള പോസിറ്റീവ് ചാർജ് സിലിണ്ടറിലേക്ക് ഞാൻ നോക്കിയാൽ ആദ്യം E റേഡിയൽ ദിശയിൽ മാത്രമായിരിക്കും അതിനാൽ E dot ds ചാർജ് ചെയ്യുന്നതിന് തുല്യമാണ് അത് പൈ ആകാൻ പോകുന്നു ഇത് ദൂരം r പൈ r 1 സ്ക്വാർ ഞാൻ സിലിണ്ടർ ഉപരിതലത്തിന്റെ നീളമോ ഉയരമോ എടുത്താൽ 1 കൊണ്ട് ഹരിക്കാം എപ്സിലോൺ 0 തവണ rho E എല്ലായിടത്തും ഒരുപോലെയാണ് അതിനാൽ ഇത് E ഗുണം 2 പൈ r 1 l തുല്യമാണ് പൈ r 1 സ്ക്വാർ 1 ഓവർ എപ്സിലോൺ 0 ന് ഒരുപക്ഷേ നിങ്ങളുടെ പന്ത്രണ്ടാം ക്ലാസ്സിൽ നിന്നുള്ള ഈ ഫലം നിങ്ങൾക്കറിയാം നമുക്ക് അത് ചെയ്യാം അതിനാൽ pi ഇരുവശത്തുനിന്നും റദ്ദാക്കുന്നു r 1 r 1 ഇരുവശത്തുനിന്നും റദ്ദാക്കുന്നു l ഇരുവശത്തുനിന്നും റദ്ദാക്കുന്നു അതിനാൽ E 1 മാഗ്നിറ്റ്യൂഡ് പൈക്ക് തുല്യമാണ് പൈ റദ്ദാക്കി എന്നത് ഒരു rho എന്നതിന് തുല്യമാണ് ക്ഷമിക്കണം r 1 rho ഓവർ 2 എപ്സിലോൺ 0 ന് തുല്യമാണ് കൂടാതെ വെക്റ്ററുകൾക്ക് അതിന്റെ റേഡിയൽ ദിശയിലുള്ളതിനാൽ എനിക്ക് E വെക്റ്റർ r 1 വെക്റ്റർ rho ഓവർ 2 എപ്സിലോൺ 0 ന് യ്ക്ക് തുല്യമായി എഴുതാം E 2πr1lr12l0ρ ∴E1r120 നെഗറ്റീവ് ചാർജിന്റെ അതേ രീതിയിൽ ഫീൽഡ് വിപരീത ദിശയിലായിരിക്കും മാഗ്നിറ്റ്യൂഡ് സമാനമാകാൻ പോകുന്നത് അതിനാൽ E 2 rho r 2 ഓവർ 2 എപ്സിലോൺ 0 ആയിരിക്കും ഞാൻ 2 ചേർത്ത് എനിക്ക് ലഭിക്കുന്നു E എന്നത് 2 എപ്സിലോൺ 0 r 1 പ്ലസ് r 2 ന് മുകളിലുള്ള rho ന് തുല്യമാണ് എന്നാൽ r 1 പ്ലസ് r 2 എന്താണ് 2 ഓവർലാപ്പിംഗ് സിലിണ്ടറുകൾ കാണിക്കുന്ന ഈ ഡയഗ്രാമിലേക്ക് ഞാൻ പോകാം r 1 പ്ലസ് r 2 ഈ വെക്റ്റർ a ആണ് വെക്റ്റർ പോസിറ്റീവ് ചാർജ്ജ് ചെയ്ത സിലിണ്ടറിലേക്ക് നെഗറ്റീവ് ചാർജ്ഡ് സിലിണ്ടറിലേക്ക് മാറുന്നു അതിനാൽ ഇത് rho ഓവർ 2 എപ്സിലോൺ 0 ന് തുല്യമാണ് ഓവർലാപ്പുചെയ്യുന്ന പ്രദേശത്ത് ഞാൻ ഏത് പോയിന്റിലാണെന്നത് പരിഗണിക്കാതെ എനിക്ക് സ്ഥിരമായ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട് അതിന്റെ വ്യാപ്തി 2 ഓവർ എപ്സിലോൺ 0 ആണ് E2r220EE1E2ρr1r220a20 അടുത്തതായിപ്രശ്നം നമ്പർ 5 ഞാൻ പരിഹരിക്കുന്നു f ഫംഗ്ഷൻ വിവരിച്ച വെക്റ്റർ ഫീൽഡിന്റെ വ്യതിചലനം x y z എന്നിവയുടെ പ്രവർത്തനം x സ്ക്വാർ x യൂണിറ്റ് വെക്ടറിനും 6 xyzy യൂണിറ്റ് വെക്ടറിനും z സ്ക്വയർ xz യൂണിറ്റ് വെക്ടറിനും തുല്യമാണ് എന്താണ് വ്യതിചലനം f ദിശയുടെ x ന്റെ വ്യതിരിക്തത കണക്കാക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു അത് x ദിശയിലുള്ള x നെ സംബന്ധിച്ചിടത്തോളം ഭാഗിക ഡെറിവേറ്റീവ് ആണ് ഒപ്പം x ഭാഗിക y പ്ലസ് x ഭാഗിക z x ചതുരശ്ര x പ്ലസ് 6 xyzy പ്ലസ് z സ്ക്വയർ xz എന്നിവ ഉപയോഗിച്ച് ഡോട്ട് ചെയ്ത എനിക്ക് ഇഷ്ടമുള്ളതുപോലെ എഴുതാൻ കഴിയും ഒരുതവണ പൂർണ്ണ മഹത്വത്തോടെ ചെയ്യുക തുടർന്ന് x ഘടകത്തിന്റെ x ഭാഗിക ഡെറിവേറ്റീവ് y ഘടകത്തിന്റെ ഭാഗിക ഡെറിവേറ്റീവ് z ഘടകത്തിന്റെ ഭാഗിക ഡെറിവേറ്റീവ് എടുക്കുന്നതിൽ മാത്രം അർത്ഥമുണ്ടെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും എന്നാൽ തൽക്കാലം നമുക്ക് ഇത് പൂർണ്ണമായും ചെയ്യാം x2x6xyzyz2zz അതിനാൽ d ഉപയോഗിച്ച് x ഡോട്ട് d ബൈ dx എനിക്ക് 2 x x യൂണിറ്റ് ദിശയും y ദിശയിൽ 6 y z ഉം z ദിശയിൽ z സ്ക്വയറും y യൂണിറ്റ് വെക്റ്ററും ഡോട്ട് ആദ്യത്തെ x ദിശയിൽ 0 നൽകുന്നു രണ്ടാമത്തെ ഘടകം y ദിശയിൽഎനിക്ക് നൽകുന്നു 6 xz പ്ലസ് 2 z x y z ദിശയിൽ നൽകുന്നു ഞാൻ ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുന്നു നമുക്ക് ലഭിക്കുന്ന അവസാന ഉത്തരം 2 x ആണ് കാരണം x ഡോട്ട് y 0 x dot z 0 പ്ലസ് 6 x z പ്ലസ് 2 z x ആണ് ഇത് z ഘടകത്തിന്റെ z ഡെറിവേറ്റീവ് എടുക്കുന്നു y ന്റെ ഡെറിവേറ്റീവ് ഘടകം x ഘടകത്തിന്റെ x ഡെറിവേറ്റീവ് എല്ലാംകൂട്ടുന്നു 06xyy2zxz പ്രശ്നo നമ്പർ 6 വെക്റ്റർ ഫീൽഡിന്റെ വ്യതിചലനം x ദിശയിൽ 2 ആൽഫ x ഉം y ദിശയിൽ ബീറ്റാ y ഉം z ദിശയിൽ മൈനസ് 3 ഗാമാ z ഉം അതിന്റെ വ്യതിചലനം 0 ആണെങ്കിൽ ആൽഫ ബീറ്റ ഗാമ എന്നിവ തമ്മിലുള്ള ബന്ധം എന്താണ് അതിനാൽ നമുക്ക് A യുടെ വ്യതിചലനം എടുക്കാം അത് എക്സ് യൂണിറ്റ് വെക്റ്റർ പാർഷ്യൽ റെസ്പെക്ട് ടു z ഡോട്ടേഡ് 2 ആൽഫ x x പ്ലസ് ബീറ്റ y y മൈനസ് 3 ഗാമ z z തുല്യമാണ് പാർഷ്യൽ ഡെറിവേറ്റീവുകൾ എടുക്കുന്നതിന് റെസ്പെക്ട് ടു x ഘടകത്തിന്റെ x മായി മാത്രം അതിനാൽ ഇത് 2 ആൽഫ പ്ലസ് ബീറ്റ മൈനസ് 3 ഗാമ 0 ന് തുല്യമാണ് അതിനാൽ ബന്ധം വ്യതിചലനം 0 ആയിരിക്കണം അല്ലെങ്കിൽ നിങ്ങളുടെ അസൈൻമെന്റിൽ ഞാൻ നൽകിയ ഉത്തരത്തിന്റെ അടിസ്ഥാനത്തിൽ ആൽഫ ഓവർ 3 പ്ലസ് ബീറ്റാ ഓവർ 2 ന് 0 ന് തുല്യമാണ് Axyz2αxxβyy 3γzz 2αxxβyy 3γzz0 2αβ 3γ0 36 20 പ്രശ്ന നമ്പർ 7 ചാർജ് വിതരണത്തിനായി ഒരു ഇലക്ട്രിക് ഫീൽഡ് നിങ്ങൾക്ക് നൽകിയിട്ടുള്ളതിനാൽ ചാർജ് വിതരണത്തിനുള്ള ഇലക്ട്രിക് ഫീൽഡ് നൽകിയിട്ടുണ്ട് ഇത് r ന്റെ ഗോളാകൃതിയിലുള്ള ദൂരമാണ് ഗോളാകൃതിയിലുള്ള ധ്രുവീയ കോർഡിനേറ്റുകൾ ഉപയോഗിക്കുന്നു സി ഇ റൈസ് ടു ലാംഡ r ഹരിക്കുന്നു r ക്യൂബ് r വെക്റ്റർ അതിനർത്ഥം r ന്റെ ആശ്രിതത്വം ഞാൻ കണക്കാക്കിയാൽ ആശ്രിതത്വം r ന്റെ അടിസ്ഥാനത്തിൽ ഇത് C e റൈസ് ടു മൈനസ് ലാംഡ ആർ ഓവർ ആർ സ്ക്വയർ മാത്രമല്ല ഇത് r ചതുരശ്ര റേഡിയൽ ദിശയിലായിരിക്കും കാരണം ഈ r വെക്റ്ററിന് r മാഗ്നിറ്റ്യൂഡ് ഉണ്ട് നമുക്ക് ഇപ്പോൾ കണ്ടെത്താൻ ആഗ്രഹിക്കുന്നത് ഉത്ഭവത്തിനുചുറ്റും വളരെ ചെറിയ ദൂരമുള്ള എപ്സിലോൺ എടുക്കുകയാണെങ്കിൽ എപ്സിലോൺ 0 ലേക്ക് പോകുന്ന പരിധിക്കുള്ളിൽ ഈ ഗോളത്തിന്റെ ചാർജ് നൽകുന്നത് ErCe λrr3r|Er|Ce λrr2 അതിനാൽ ഗാസ്സിന്റെ നിയമം നമ്മൾ പ്രയോഗിക്കും അത് E dot d s ൽ എപ്സിലോൺ 0 കൊണ്ട് ബന്ധിപ്പിച്ചിരിക്കുന്ന Q ന് തുല്യമാണെന്നും നമ്മൾ ചെയ്യുന്നത് നമ്മൾ ഉത്ഭവം എടുക്കുകയാണെന്നും ഇവിടെ വളരെ ചെറിയ ഒരു ഗോളമെടുക്കുന്നുവെന്നും ആണ് d s എല്ലാ റേഡിയലും ആയിരിക്കും അതിനാൽ എനിക്ക് എഴുതാം റേഡിയൽ ഇ ഡോട്ട് ഡി എസ് ഡി e റൈസ് ടു മൈനസ് ലാംഡ ആർ ഓവർ ആർ സ്ക്വാർ ഗുണം ആർ യൂണിറ്റ് വെക്റ്റർ ഡോട്ട് ഡി എസ് അത് ആകാൻ പോകുന്നു 4 പൈ ആർ സ്ക്വാർ എല്ലാ റേഡിയലും ആയിരിക്കും നിങ്ങൾക്ക് ഇത് കൂടുതൽ ശരിയായി എഴുതാൻ താൽപ്പര്യമുണ്ടെങ്കിൽ ഞാൻ r യൂണിറ്റ് വെക്റ്റർ എടുക്കും ഡോട്ട് ഡി ഒമേഗ ആർ സ്ക്വാർ ഇത് ശരിക്കും ഇവിടെ ഏരിയയുടെ ചെറിയ ഘടകമാണ് ഇവിടെ ആർ യൂണിറ്റ് വെക്റ്റർ അത് ആകാൻ പോകുന്നു ഡി e റൈസ് ടു മൈനസ് ലാംഡ ആർ ഓവർ ആർ സ്ക്വാർ ഗുണം ആർ ആർ സ്ക്വാർ ഇത് phi theta എന്നിവയെ ആശ്രയിക്കാത്തതിനാൽ എനിക്ക് ഇത് 4 pi എന്ന് എഴുതാം അതിനാൽ ഇത് യഥാർത്ഥത്തിൽ 4 pi C e റൈസ് ടു ലാംഡ r r സ്ക്വയർ റദ്ദാക്കുന്നു ഇത് എപ്സിലോൺ 0 ന് മുകളിലുള്ള Q ന് തുല്യമാണ് r24π4πCe λrQ0 അതിനാൽ Q എൻക്ലോസ്ഡ് 4 pi C റൈസ് ടു ന് തുല്യമാണ് മൈനസ് ലാംഡ r തവണ എപ്സിലോൺ 0 ന് തുല്യമാണ് R എന്നത് വളരെ ചെറുതാണെങ്കിൽ 0 ലേക്ക് പോകുന്ന എപ്സിലോണിലേക്ക് പോകുന്നു ഇത് 4 pi C എപ്സിലോൺ 0 ഉത്ഭവസ്ഥാനത്ത് ഒരു പോയിന്റ് ചാർജ് കാരണം ഞാൻ 0 ആക്കുന്ന പരിധിയിൽ ദൂരം ചെറുതുമായി മാറുന്നുവെങ്കിൽപ്പോലും അത് ഇപ്പോഴും ഒരു ഫൈനൈറ്റ് ചാർജ് 4 pi C എപ്സിലോൺ 0 ഉൾക്കൊള്ളുന്നു അതായത് അടിസ്ഥാനപരമായി 0 ന്റെ വ്യാപ്തി പോയിന്റ് ചാർജ് ഉണ്ട് Qenclosed4πC0e λr പ്രശ്ന നമ്പർ 8 ഇലക്ട്രിക് ഫീൽഡിനായി നമ്മൾ വീണ്ടും E ഇലക്ട്രിക് ഫീൽഡിലേക്ക് തിരികെയെത്തുന്നു r അത് സി e റൈസ് ടു മൈനസ് ലാംഡാ ആർ ഓവർ ആർ ക്യൂബ്ഡ് വെക്റ്റർ ആർ ന് തുല്യമാണ് ഒരു ഷെല്ലിലൂടെ ചെറിയ ഫ്ലക്സ് അല്ല ഒരു ഷെല്ലിലൂടെ ഒഴുകുന്ന ചെറിയ ആരം R ഷെല്ലിലൂടെയുള്ള ഫ്ലക്സ് അനന്തമായ കനം d r അതിനാൽ നമ്മൾ ആരം R കനം d r എന്നിവയുടെ ഷെൽ എടുക്കുന്നു ഇതിലൂടെയുള്ള ഫ്ലക്സ് എത്രയായിരിക്കും ഞാൻ ചുവപ്പ് നിറത്തിൽ ഷേഡിംഗ് ചെയ്യുന്ന ഈ വോള്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഈ സാഹചര്യത്തിൽ ശ്രദ്ധിക്കുക 2 ഉപരിതലങ്ങളുണ്ട് അതിനാൽ നെറ്റ് ഫ്ലക്സ് ആന്തരിക ഉപരിതലത്തിലൂടെ ഒഴുകുകയും പുറം ഉപരിതലത്തിലൂടെ ഒഴുകുകയും ചെയ്യും ഞാൻ ആന്തരിക ഉപരിതലത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ഏരിയ വെക്റ്റർ അകത്തേക്ക് ചൂണ്ടുന്നു കാരണം ഏരിയ വെക്റ്റർ എല്ലായ്പ്പോഴും വോളിയത്തിൽ നിന്ന് പുറത്തുപോകാൻ എടുക്കുന്നു അതിനാൽ ഏരിയ വെക്റ്റർ യഥാർത്ഥത്തിൽ നെഗറ്റീവ് r യൂണിറ്റ് വെക്റ്റർ ദിശയിലാണ് ചുവന്ന ഉപരിതലത്തിൽ ഞാൻ നിർമ്മിക്കുന്ന പുറംഭാഗത്ത് ഏരിയ വെക്റ്റർ പോസിറ്റീവ് r ദിശയിലാണ് മുമ്പത്തെ പ്രശ്നത്തിൽ ഞാൻ ഇതിനകം തന്നെ കണക്കാക്കിയിട്ടുണ്ട് ഈ ഗോളത്തിൽ നിന്ന് ചൂണ്ടിക്കാണിക്കാൻ ഏരിയ വെക്റ്ററായി എലമെൻറൽ വെക്റ്റർ എടുക്കുമ്പോൾ ഇത് 4 pi C e റൈസ് ടു മൈനസ് ലാംഡ r ഗുണം അതായത് ഇത് d 4 pi C e റൈസ് ടു മൈനസ് ലാംഡ r dS4πCe λr അതിനാൽ ആന്തരിക ഉപരിതലത്തിനായി പച്ച നിറത്തിൽ എഴുതാം കാരണം d s വെക്റ്റർ വിപരീത ദിശയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് അതിനാൽ ആന്തരിക ഉപരിതലത്തിനായുള്ള E dot ds മൈനസ് 4 pi C e റൈസ് ടു മൈനസ് ലാംഡ r കാരണം ഇലക്ട്രിക് ഫീൽഡ് വെക്റ്റർ പുറത്തുപോകുന്നു നീല വരകൾ കാണിക്കുന്ന വഴിക്ക് പോകുന്നു ds വെക്റ്റർ അതിന് നേരെ 180 ഡിഗ്രിയിലാണ് പുറം ഉപരിതലത്തിനായുള്ള E dot d s പ്ലസ് 4 pi C e റൈസ് ടു മൈനസ് ലാംഡ r തുല്യമായി ഞാൻ ഇപ്പോൾ ഈ ചെറിയ r നെ ക്യാപിറ്റൽ R ഉപയോഗിച്ച് മാറ്റിസ്ഥാപിക്കാൻ പോകുന്നു അതിനാൽ ഞാൻ ഈ ചെറിയ r നെ ക്യാപിറ്റൽ R ഉപയോഗിച്ച് മാറ്റിസ്ഥാപിക്കും ഈ ചെറിയ r നീക്കംചെയ്യുക ക്യാപിറ്റൽ R ഉപയോഗിച്ച് മാറ്റിസ്ഥാപിക്കുക കാരണം നമ്മൾ ആരം ക്യാപിറ്റൽ R ഞാൻ രണ്ടും ചേർക്കുന്നു അതിനാൽ നെറ്റ് ഫ്ലക്സ് ആകാൻ പോകുന്നത് d r അനന്തമായതിനാൽ എനിക്ക് ഈ എക്സ്പോണൻഷ്യൽ എഴുതാൻ കഴിയും e റൈസ് ടു മൈനസ് ലാംഡ r 1 മൈനസ് ലാംഡ ഡി ആർ ആയി ഇതുവരെയുള്ളത് കൃത്യമാണ് തുടർന്ന് ഞാൻ ഇത് e റൈസ് ടു മൈനസ് ലാംഡ r 1 മൈനസ് ലാംഡ ഡി ആർ എന്നിട്ട് ഉയർന്ന ഓർഡർ നിബന്ധനകളായി ഉയർത്തും അതിനാൽ ആദ്യ ഓർഡറിലേക്ക് ഫ്ലക്സ് 4 pi C ലാംഡ e റൈസ് ടു മൈനസ് ലാംഡ ആർ ഡി ആർ ന് തുല്യമാകുകയും ആർ റദ്ദാക്കുകയും ചെയ്യും ഇത് ഈ ആരം r ന്റെ ഷെല്ലിലൂടെയുള്ള ഒരു ഫ്ലക്സ് ആണ് ഒപ്പം കനം dr അതാണ് ഉത്തരം ds|outersurface4πCe λRdR4πCe λRe λdR4πCe λR1 λdR 4πCλe λRdR പ്രശ്ന നമ്പർ 9 E ഇലക്ട്രിക് ഫീൽഡിനായുള്ള ചാർജ് ഡെൻസിറ്റി rho r e റൈസ് ടു മൈനസ് ലാംഡ ആർ ഓവർ ആർ ക്യൂബ്ഡ് വെക്റ്റർ ആർ ഗൌസ് ന്റെസി നിയമപ്രകാരം ചാർജ് ഡെൻസിറ്റി കണ്ടെത്താൻ നമ്മൾ ആഗ്രഹിക്കുന്നു ഇപ്പോൾ എനിക്ക് നേരിട്ട് വ്യതിചലന സിദ്ധാന്തം ഉപയോഗിച്ച് E ന്റെ വ്യതിചലനം ഉപയോഗിക്കാം പക്ഷേ ഞാൻ അത് ചെയ്യാൻ പോകുന്നില്ല ഷെല്ലിന് സമീപമുള്ള ചാർജ് ഡെൻസിറ്റി എന്താണെന്ന് നമുക്ക് നോക്കാം ഇതിലൂടെ നമ്മൾ ഇതിനകം തന്നെ ഫ്ലക്സ് കണക്കാക്കിയിട്ടുണ്ട് അതിനാൽ ഈ ഷെല്ലിലൂടെയുള്ള ഫ്ലക്സ് മൈനസ് 4 പൈ സി ലാംഡ e റൈസ് ടു മൈനസ് ലാംഡ ആർ ഡി ആർ ഇത് ചാർജ്ജ് എൻപ്ലോൺ 0 കൊണ്ട് ഹരിക്കേണ്ടതാണ് ചാർജ്ജ് എൻക്ലോസ്ഡ് ഷെല്ലിന്റെ വോളിയമായിരിക്കും 4 പൈ ആർ ചതുരശ്ര തവണ rho r എപ്സിലോൺ 0 കൊണ്ട് ഹരിക്കുന്നു 2 വശങ്ങൾ നോക്കൂ നിങ്ങൾക്ക് ഈ ഡെൽറ്റ r റദ്ദാക്കാം നമ്മൾ dr റദ്ദാക്കില്ല ഇത് യഥാർത്ഥത്തിൽ ഡെൽറ്റ r ആയി ആയിരിക്കണം അതിനാൽ ഈ 4 പൈ നമ്മൾ റദ്ദാക്കുന്നു അതിനാൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് rho ആർ തുല്യമാണ് മൈനസ് സി ലാംഡ e റൈസ് ടു മൈനസ് ലാംഡ ആർ ഒരു എപ്സിലോൺ 0 r സ്ക്വയറിനാൽ വിഭജിക്കപ്പെടുന്നു അത് നിങ്ങൾ r 0 ൽ നിന്ന് ദൂരെ ആകുമ്പോൾ കിട്ടുന്ന ചാർജ് ഡെൻസിറ്റി ആണ് ρ0 r C0e λrr2 പ്രശ്ന നമ്പർ 8 ൽ ഞാൻ ഇതിനകം ചൂണ്ടിക്കാണിച്ചിരുന്നു മധ്യഭാഗത്ത് ഒരു പോയിന്റ് ചാർജ് ഉണ്ടെന്ന് പ്രശ്ന നമ്പർ 7 ഉണ്ട് കാരണം നിങ്ങൾ മധ്യഭാഗത്തേക്ക് പോകുമ്പോൾ വൈദ്യുത മണ്ഡലം 1 ഓവർ ആർ സ്ക്വയറിനെ പോലെയാണ് കാരണം ഇ റൈസ് ടു മൈനസ് ലാംഡ ആർ 1 ആയി മാറുന്നു അതിനാൽ ഒരു അധിക സാന്ദ്രത അധിക ചാർജ് ഉണ്ട് അവിടെ കാന്തികത 4 പൈ സി എപ്സിലോൺ 0 ആയിരുന്നു അതിനാൽ ചാർജ് ഡെൻസിറ്റി ഡെൽറ്റ ആർ ആകാൻ പോകുന്നു കാരണം ഇത് ഒരു പോയിന്റ് ചാർജാണ് അതിനാൽ ഈ ഇലക്ട്രിക് ഫീൽഡിന്റെ നെറ്റ് ചാർജ് ഡെൻസിറ്റി 4 പൈ സി എപ്സിലോൺ 0 ഡെൽറ്റ ആർ മൈനസ് സി എപ്സിലോൺ 0 ലാംഡ ഓവർ ആർ സ്ക്വയർ ഇ റൈസ് ടു മൈനസ് ലാംഡ ആർ മൈനസ് ലാംഡ ആർ അതാണ് നിങ്ങളുടെ ഉത്തരം